ഇപ്പോൾ x ആണ് എന്റെ സെറ്റ് ഓഫ് അണ്നോൺസ് അത് ത്രികോണത്തിൽ കൂടിയുള്ള ടാൻജൻഷിയൽ കമ്പോണെന്റ് ആണ് ഇത് എഴുതാവുന്നതാണ് അങ്ങനെ ഞാൻ Us ന്റെ നാല് സെറ്റ്സ് എഴുതിയിട്ടുണ്ട് ആദ്യത്തെ സെറ്റ്സ്നെ ഇന്റീരിയർ എന്ന് പറയാം ഇത് ഉം ഉം ആണ് ഒന്നാമത്തെ എഡ്ജസ് ന്റെ സെറ്റ്സ് എല്ലാം ൽ ഉൾപ്പെടുന്നതാണ് ൽ ഉൾപ്പെടുന്നതല്ല അടുത്ത സെറ്റ്സ് ലും ലും ഉൾപ്പെടുന്നതാണ് അതായത് ആദ്യത്തെ രണ്ട് സെറ്റ്സ് ഓഫ് അണ്നോൺസും ൽ ഉൾപ്പെടുന്നതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് വിദ്യാർത്ഥി അതിൽ നിന്നും കിട്ടി അതെ H total കിട്ടാൻ വേണ്ടി ഞാൻ ഇൻസിഡന്റ് കൂട്ടി വിദ്യാർത്ഥി പക്ഷെ അത് വിശദീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിഭജനം നടത്തുന്നത് ആദ്യത്തെ രണ്ട് വിഭജനവും മനസ്സിലായല്ലോ മുഴുവൻ ബൌണ്ടറി എഡ്ജസും അതായത് രണ്ടാമത്തെ സെറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ സെറ്റി നെക്കുറിച്ച് എന്തു പറയുന്നു മൂന്നാമത്തെ സെറ്റ് ലും ലും ഉൾപ്പെടുന്നതാണ് ഏത് എഡ്ജസ് ആണ് ഇവിടെ വരുന്നത് സെക്കൻഡ് സെറ്റിലെ എഡ്ജസ് തന്നെ അതായത് Us ആണ് എഡ്ജസ് അവസാനത്തെ സെറ്റ് ൽ ഉൾപ്പെട്ടതാണ് ൽ ഉൾപ്പെട്ടതല്ല ഇതെല്ലാം ഒബ്ജക്റ്റ്ന്റെ അകത്തുള്ളതാണ് അതായത് എഡ്ജസ് ഞാൻ രണ്ടു തവണ എണ്ണിത്തിട്ടപ്പെടുത്തി യിട്ടുണ്ട് അതിന്റെ കാരണം ഒരു കേസിൽ ഈ എഡ്ജസ് ടോട്ടൽ ഫീൽഡിനെ പ്രതിനിധാനം ചെയ്യുന്നു മറ്റേ കേസിൽ സ്കാറ്റെർഡ് ഫീൽഡിനെയും രണ്ടാമത്തെ സെറ്റിലെയും മൂന്നാമത്തെ സെറ്റിലെയും Us തമ്മിൽ ഒരു ബന്ധമുണ്ട് പക്ഷേ ഇൻസിഡന്റ് ഫീൽഡിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് ഇതാണ് എന്റെ A മാട്രിക്സ് ഇതാണ് എന്റെ x വീണ്ടും ഇതിനെ എത്ര ഭാഗങ്ങളായി വിഭജിക്കാൻ പറ്റും നാല് ഭാഗങ്ങളായി ഇവ നാല് സെറ്റ്സിനെയും ഇരട്ടിപ്പിക്കും രണ്ടാമത്തെയും മൂന്നാമത്തെയും എഡ്ജസിന്റെ സെറ്റ്സിന്റെ കാര്യം എത്തുമ്പോൾ അവയുടെ കോഎഫിഷ്യന്റ് എന്തായിരിക്കും 1 1 വലതുവശം ഇൻസിഡന്റ് ഫീൽഡ് ആയിരിക്കും കാരണം ഇവ സ്കാറ്റെർഡ് ഉം ഇവ ടോട്ടൽ ഉം ആണ് അപ്പോൾ സ്കാറ്റെർഡ്നെയുംടോട്ടൽ നെയും ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ എന്താണ് അത് Hs H ആണ് വേണമെങ്കിൽ ഇതിനെ എന്നും എഴുതാം അപ്പോൾ ഇവിടെ Hs എന്ന് പറയുന്നത് H സ്കാറ്റെർഡ് ആണ് ഇത് വാരിയബ്ൾസിൽ ഒന്നാണ് H എന്നത് H ടോട്ടൽ ഇത് വാരിയബിൾസിൽ ഒന്നാണ് ഒന്ന് രണ്ടാമത്തെ സെറ്റിൽ നിന്ന് മറ്റേത് മൂന്നാമത്തെ സെറ്റിൽ നിന്നും ആണ് വരേണ്ടത് അതുകൊണ്ട് ഇവയുടെ കോഎഫിശ്യന്റ്സ് 1ഉം 1ഉം ആണ് അവിടെ നിന്നും കിട്ടി ഇനി നമുക്ക് അത് ഘടിപ്പിക്കണം ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ എഡ്ജ് ആയിട്ട് പോകാം ൽ ഉൾപ്പെട്ട എഡ്ജസ് എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഇക്വേഷൻസ്നിലവിൽ വരുന്നത് ഇങ്ങനെ കിട്ടുന്ന ഇക്വേഷൻസ് അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെയുള്ള എഡ്ജ് ദൂരെയുള്ള മറ്റ് എഡ്ജസിൽ ഉൾപ്പെടുന്നില്ല അതൊക്കെ പൂജ്യം ആയിരിക്കും എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ഇവിടെ എന്തെങ്കിലും എലമെന്റ്സ്ഉണ്ടെങ്കിൽ മാത്രമെ ബൌണ്ടറിയുടെ പ്രശ്നം ഉദിക്കുകയുള്ളൂ ഫൈനൈറ്റ് എലമെന്റ് or FDTD യുടെ ഫസ്റ്റ് കോഴ്സിൽ സ്കാറ്റെർഡ് ഫീൽഡ് ഫോർമുലേഷനെ ക്കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല ഇത് അത്രമാത്രം പ്രയാസമുള്ള കാര്യമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എഡ്ജിൽ ഉള്ള വേരിയബിൾ സ്കാറ്റെർഡ് ഫീൽഡ് ആണോ ടോട്ടൽ ഫീൽഡ് ആണോ എന്നുള്ളതാണ് അവ വ്യത്യസ്ത മാണെങ്കിൽ ശരിയായ തുക ഉപയോഗിച്ചാണ് അവ കുറക്കുന്നത് എന്ന് ഉറപ്പാക്കണം അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കുറച്ച് വലുതായി തോന്നും പക്ഷേ അക്കാര്യത്തിൽ പരിഭ്രമിക്കേണ്ടതില്ല രണ്ടാമത്തെ സെറ്റും മൂന്നാമത്തെ സെറ്റും കൂട്ടിച്ചേർത്തു ഒരു വേരിയബിൾ ആക്കാൻ പറ്റും അത് തിരിച്ചറിഞ്ഞാൽ അതു തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാവും നമുക്കിത് ഒറ്റക്ക് ഒറ്റക്കായി പരിഹരിക്കാൻ പറ്റില്ല ആ എഡ്ജസ് ഇവിടെയുള്ള പച്ച ത്രികോണം പോലെ ആയിരിക്കും അതായത് ഈ ത്രികോണത്തിന് ഒന്നാമത്തെയും രണ്ടാമത്തെയും സെറ്റിൽ ഉൾപ്പെടുന്ന എഡ്ജസ് ആണ് ഉള്ളത് അവ വേർപെടുത്തിയിട്ടില്ല സെറ്റ് 1 നെ പൂർണ്ണമായും സോൾവ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ത്രികോണ ത്തിന്റെ എഡ്ജസ് സെറ്റ് 1 ലും സെറ്റ് 2 ലും ഉൾപ്പെട്ടതാണ് അപ്പോൾ അവ വേർതിരിക്കാൻ പറ്റാത്ത ഇക്വേഷൻസ് ആണ് അതുകൊണ്ട് സെറ്റ് 1ൽ മാത്രമായി ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കിട്ടുവാൻ പ്രയാസമാണ് അതായത് സെറ്റ് 1 ലെ എഡ്ജസ് മുഴുവനായും അകത്താണ് അപ്പോൾ സെറ്റ്1 എന്തിൽ ഉൾപ്പെടുന്നു ൽ ഉൾപ്പെട്ടതല്ല ഇതാണ് Ax ഈ സെറ്റിൽ വേറെ ഇക്വേഷൻസ് ഇല്ല അങ്ങനെ അല്ല ഇത് ഇക്വേഷൻസ് മുഴുവൻ ഉള്ള സെറ്റ് ആണ് അതിന്റെ എഡ്ജിൽ ഉള്ള വേരിയബിൾസിന്റെ എണ്ണം ആണ് ഞാൻ രണ്ട് തവണ എണ്ണിത്തിട്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3 ഇവ വെവ്വേറെ കണ്ടു പിടിക്കാൻ പറ്റില്ല വിദ്യാർത്ഥി അതെല്ലാം കാരണം അവയെല്ലാം വേർതിരിക്കാൻ പറ്റാത്തതാണ് അതായത് മറ്റ് സെറ്റുകളും ആയി ബന്ധപ്പെട്ട ഒരു വേരിയബിൾ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് രൂപീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കൂടിച്ചേരൽ കൂടുതൽ വ്യക്തമാവും ഇപ്പോൾ മനസ്സിലായോ ഇവിടെ ഉണ്ടായത് ഇൻസിഡൻസ് ഫീൽഡ് ആണ് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ടോട്ടലും സ്കാറ്റെർഡ് ഫീൽഡും തമ്മിലുള്ള താരതമ്യ പഠനത്തിലേക്ക് പോവാൻ സാധിക്കും അതായത് ടോട്ടൽ ലെ ഇൻസിഡന്റ് ഫീൽഡ് നെ ടോട്ടൽ F or TF എന്ന് വിളിക്കാം നമുക്ക് ഇതിനെ TF എന്നും ഇതിനെ SF എന്നും വിളിക്കാം എവിടെയാണ് ഇൻസിഡന്റ് ഫീൽഡ്പ്രത്യക്ഷപ്പെടുന്നത് അത് ൽ ആണ് നിങ്ങൾ ഇവിടെയുള്ള ടോട്ടൽ ഫീൽഡ് ഫോർമുലേഷനിലേക്ക് നോക്കിയാൽ ഇതൊക്കെ സംഭവിച്ചത് ലാണ് ഏറ്റവും പുറത്തുള്ള ബൌണ്ടറി അതായത് ടോട്ടൽ ഫീൽഡ് പ്രത്യക്ഷപ്പെട്ടത് ലാണ് സ്കാറ്റെർഡ് ഫീൽഡിൽ എവിടെയാണ് ഇത് പ്രത്യക്ഷപ്പെടുക സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ ഇത് എവിടെയാണ് കൊണ്ട് വരുന്നത് ൽ ൽ അല്ല ൽ ഇൻസിഡന്റ് ഫീൽഡ് പ്രത്യക്ഷപ്പെടില്ല കാരണം ഇവിടെ വേരിയബിൾ സ്കാറ്റെർഡ് ഫീൽഡ് ആണ് അതുകൊണ്ട് ഇൻസിഡന്റ് ഫീൽഡ് പ്രത്യക്ഷപ്പെടാനുള്ള ഒരു ചാൻസും ഇല്ല ഫോർമുലേഷനിൽ ഇൻസിഡന്റ് ഫീൽഡ് എവിടെ കൊണ്ട് വരും എന്നുള്ളതാണ് വലിയ അഥവാ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ൽ നമുക്ക് കിട്ടുന്ന എഡ്ജസിന്റെ എണ്ണം കുറവാണ് അതുകൊണ്ടെന്താ b യിലെ നോൺ സീറോ എൻട്രിസ് ന്റെ എണ്ണം കണക്കാക്കുന്നതിൽ നിന്നും നമുക്കൊന്നും മനസ്സിലാവില്ല അവിടെ വേറെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അത്കൊണ്ട് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻസ് ന്റെ ഒരു വശം ഇവിടെയുണ്ട് ഇവിടെ ഒരു ബൌണ്ടറി ഉണ്ടെന്ന് വിചാരിക്കുക ഒരു നോ ഒബ്ജെക്റ്റ് ഞാൻ കൊണ്ട് വരുന്നു ഒരു പോയിന്റിൽ പ്ലേൻ വേവ് ഞാൻ കൊണ്ട് വരുന്നു ഒരു പ്ലേൻ വേവ് സോഴ്സ്ഒരു പോയിന്റിൽ കൊണ്ട് വരുന്നു അനലിറ്റിക്കലിഫീൽഡിന്റെ ഫോം എന്തായിരിക്കും എന്ന് എനിക്ക് അറിയാം കാരണം അവിടെ നോ ഒബ്ജക്റ്റ് പ്ലേൻ വേവ് ആണ് പക്ഷേ അതെ ഫൈനൈറ്റ് എലമെന്റ് മെഷ്ൽ എനിക്ക് ഇത് പരിഹരിക്കാൻ പറ്റും അപ്പോൾ അനലിറ്റിക്കൽ സൊല്യൂഷന്റെ അതെ ഉത്തരം തന്നെ എനിക്ക് കിട്ടുമോ അതേ ഉത്തരം തന്നെ നിങ്ങൾക്ക് കിട്ടും ഡിസ്ക്രീടൈസേഷൻ ഫൈനർ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത് പോലെ തന്നെ ആ ത്രികോണങ്ങളുടെ അടിസ്ഥാന ഫംഗ്ഷൻ സിൽ ആണ് വേരിയബിൾസ് പറയുന്നത് നിങ്ങൾ കാണുന്ന ആ ത്രികോണങ്ങൾ x ലും yലും ലീനിയർ ആണ് പക്ഷേ ആക്ച്വൽ ഫീൽഡ്എക്സ്പൊണെൻഷിയൽ സൈൻ നും കോസ് ഉം ആയിരിക്കും ഞാൻ സൈൻ നെയും കോസിനെയും x ലെയും y ലെയും ലീനിയർനോട് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു ഈ അപ്രോക്സിമാഷൻകൂടുതൽ നല്ലതാണ് കാരണം ഇത് ത്രികോണത്തിന്റെ അളവ് ചെറുതാക്കുന്നു സൈൻ x x കോസ് xആയിട്ട് മാറുന്നു മെഷ്ൽ ഉള്ള ഇൻസിഡന്റ് ഫീൽഡ്ന്റെ അപ്രോക്സി മാഷൻസോഴ്സ് ലൊക്കേഷൻ ൽ നിന്നും അകന്ന് പോവുമ്പോൾ കൂടുതൽ കൃത്യം ആയിരിക്കുമോ കുറച്ചു കൃത്യം ആയിരിക്കുമോ ദൂരെ പോകുന്തോറും കൃത്യത കുറവായിരിക്കും കാരണം ദൂരെ പോകുന്തോറും തെറ്റുകൾ കുന്നുകൂടും വളരെ അടുത്ത് അതായത് ഞാൻ ബൌണ്ടറി കണ്ടിഷൻ വ്യക്തമാക്കുന്നിടത്ത് അത് കൃത്യമായിരിക്കും കാരണം ഫീൽഡ്സ് ബൌണ്ടറി കണ്ടിഷൻസിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നിടത്തോളം ശ്രമിക്കും ദൂരെ പോകുന്തോറും അപ്രോക്സിമേഷൻ സിലെ തെറ്റുകൾ കൂടാൻ തുടങ്ങും കാരണം ഞാൻ സൈൻ നെയും കോസ് നെയും ലീനിയർ ടെർമ്സിലാണ് പ്രതിനിധീകരിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ TF ആണോ SF ആണോ കൂടുതൽ നല്ലത് എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ SF ആണ് കൂടുതൽ നല്ലത് വിദ്യാർത്ഥി കാരണം TF ഇൻസിഡന്റ് ഫീൽഡ് ആണ് കാരണംTF ൽ ഈ ബൌണ്ടറിയിൽ ആണ് ഇൻസിഡന്റ് ഫീൽഡ് പ്രത്യക്ഷപ്പെടുന്നത് ഇനി ഇത് ഒബ്ജക്റ്റ് നോട് ന്യൂമറിക്കലി പ്രൊപോഗേറ്റ് ചെയ്യണം എന്നിട്ട് സ്കാറ്റെർഡ് ആവുന്നു പക്ഷേ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിലെ സ്കാറ്റെർഡ് ഫീൽഡ്ൽ ഒബ്ജക്റ്റ്ന്റെ ഉപരിതലത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത് അവിടെ ഗ്രിഡ് ഡിസ്പെർഷൻഇല്ല അതുകൊണ്ട് ഈ ടെർമിനെ ഗ്രിഡ് എന്ന് വിളിക്കും മറ്റൊരു ടെർമ് നമുക്ക് ഫൈനൈറ്റ് ഡിഫറെൻസ് ടൈം ഡൊമൈനിൽവെച്ച് ഏറ്റുമുട്ടേ ണ്ടതുണ്ട് അങ്ങനെ അനലിറ്റിക്കലിഇൻസിഡന്റ് ഫീൽഡ് എന്താണെന്ന് എനിക്കറിയാം പക്ഷേ ഒരുതവണ ഇത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ ഇട്ടാൽ ഞാൻ ഒരു ഫോം കൊടുക്കുന്നതുവരെ അതിന്റെ ഫോം മറ്റു സ്ഥലങ്ങളിൽ എന്താണെന്ന് അറിയില്ല സ്കാറ്റെർഡ് ഫീൽഡ് നേരിട്ട് ൽ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് അതിനു ഈ നേട്ടം ഉണ്ട് ഇതാണ് സ്കാറ്റെർഡ് ഫീൽഡ് ന്റെ പ്രധാന നേട്ടം അടുത്ത നേട്ടം എന്താണെന്ന് നമുക്ക് നോക്കാംഈ റേഡിയേഷൻ ബൌണ്ടറി കണ്ടിഷൻ കൃത്യമല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ90ഡിഗ്രിയിൽ അല്ല ഫീൽഡ് പതിക്കുന്നത് എന്തോ ഒന്ന് തിരികെ പ്രതിഫലിക്കുകയും ചെയ്യുന്നു ഒരു എൻജിനീയർ എന്ന നിലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ഥിതി കൂടുതൽ നന്നാക്കാം നമുക്കത് ഇവിടെ വരച്ചു നോക്കാം ഇപ്പോൾ ഇവിടെ ടോട്ടൽ ഫീൽഡ് ഉം സ്കാറ്റെർഡ് ഫീൽഡ് ഉം പ്രശ്നം അല്ല ഏതോ ഒരു വേവ് ഇവിടെ വന്നു ഇത് ടോട്ടൽ ഫീൽഡ് ന്റെയും സ്കാറ്റെർഡ് ഫീൽഡ് ന്റെ യും കാര്യത്തിൽ സത്യം ആണ് സ്കാറ്റെർഡ് ഫീൽഡ് ഫോർമുലേഷനിൽ പോലും ഞാൻ RBC അടിച്ചേൽപ്പിക്കുന്നത് നോർമൽ ഇൻസിഡൻസിൽ മാത്രം ആണ് ശരിയായിട്ടുള്ളത്നോൺ നോർമൽ ഇൻസിഡൻസിൽ ഇത് ശരിയല്ല അത് കൊണ്ട് കുറച്ചൊക്കെ ഇത് പ്രതിഫലിക്കും ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ഇത് കുറക്കാൻ വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കൃത്യമല്ലാത്ത ബൌണ്ടറി കണ്ടിഷൻ കൊണ്ടുള്ള ന്യൂമറിക്കൽ റീഫ്ലക്ഷൻ ആണ് ഇത് എനിക്ക് ഇത് കുറക്കണം ഞാനെന്തു ചെയ്യും ഈ സ്ഥിതി റിയൽ ലൈഫ് സ്ഥിതി യിലേക്ക് കൊണ്ട് വരിക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ആന്റിന കിട്ടുംഅത് ചില ഫീൽഡ്സ്പുറത്തേക്ക് വിടുന്നുആ ഫീൽഡ്സ് തിരിച്ചു വരണം എന്നില്ല ആ റീഫ്ലക്ഷൻ ആണ് എനിക്ക് തടയേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യും വിദ്യാർത്ഥി ബൌണ്ടറി കൂട്ടാം ബൌണ്ടറി കൂട്ടാൻ സാധിക്കില്ല എന്ന് കരുതുകഅതായത് ഞാനൊരു മുറിയിൽ ആണ് ഉള്ളത് ആ മുറി എനിക്ക് വലുതാക്കാൻ കഴിയില്ല കുറച്ചു അബ്സോർബർ ഇടാം ഇങ്ങനെ അബ്സോർബർ ഇട്ടാൽ ഒന്നും എന്റെ അടുത്തേക്ക് തിരിച്ചു വരില്ല ചില ഉദാഹരണങ്ങൾ നമ്മൾഇതിനകം കണ്ടുകഴിഞ്ഞു നിങ്ങൾ ഒരു അനകോയ്ക്ക്ചേമ്പറിലേക്ക് കടന്നാൽ ഒന്നും റീഫ്ലക്ട് ചെയ്യില്ല അത് ഒരു അബ്സോർബിങ് സ്ഥിതി ഭൌതികമായി സൃഷ്ടിക്കുകയാണ് മൈക്രോവേവ് റഡാർ പഠനത്തിനുള്ള ലാബിൽ ഇതുപോലുള്ള അനകൊയ്ക് ചേമ്പേഴ്സ്നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ഒരു ആന്റിന യെ വിവരിക്കണം എങ്കിൽ ചുമരിൽ നിന്നുള്ള കൃത്രിമമായ പ്രതിഫലനം ആവശ്യമില്ല ഈ മുറിയിൽ വെച്ച് ഒരു അളവ് എടുക്കണം എന്ന് വിചാരിച്ചാൽ അതായത് ഞാൻ ആന്റിനയുടെ റേഡിയേഷൻ പാറ്റേൺന്റെഅളവ് എടുക്കുകയാണെങ്കിൽ മേൽക്കൂരയിൽ തട്ടി താഴേക്ക് വരുന്ന റിഫ്ലക്ഷൻഅതിനെ വികലമാക്കും പിന്നെ ഞാൻ എങ്ങനെ അളവ് എടുക്കും ഞാൻ ഈ മുറിയുടെ ചുമര് ഒരു അബ്സോർബർ കൊണ്ട് മറക്കും ഇത് യഥാർത്ഥ ജീവിതത്തിലെ അബ്സോർബർ ആണ് പക്ഷേ ഗണിതശാസ്ത്രപരമായി എങ്ങനെ ഞാൻ അബ്സോർബർ ഉണ്ടാക്കും വിദ്യാർത്ഥി സർ വിദ്യാർത്ഥി കുറച്ച് അധികം പാഡിങ് വേണ്ടിവരും അത് ശരിയാണ് പക്ഷേ ഗണിതശാസ്ത്രപരമായി അത് എങ്ങനെ ചെയ്യും ഭൌതികമായി അളക്കുന്ന കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ ഗണിതശാസ്ത്രപരമായ എങ്ങനെ ചെയ്യും അപ്പോൾ നിങ്ങൾ മെഷർ വാക്കിനു പകരം കമ്പ്യൂട്ട് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടിവരും ആദ്യം സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാതെ എനിക്ക് എങ്ങനെ കമ്പ്യൂട്ട്ചെയ്യാൻ പറ്റും ഒരിക്കൽ ശരിയല്ലാത്ത ബൌണ്ടറി വെച്ച് അത് സോൾവ് ചെയ്താൽഎനിക്ക് കിട്ടിയിരിക്കുന്നത് റീഫ്ലക്ഷൻസ്ചേർത് വെച്ചതാണ് അങ്ങനെ ഭൌതിക പ്രശ്നത്തിൽ നിന്ന് ഗണിതശാസ്ത്രപരമായ പ്രശ്നത്തിലേക്ക് കടക്കാം ഭൌതിക പ്രശ്നം ലയെർസ്ഉപയോഗിചാണ് പരിഹരിച്ചത് അബ്സോർബ് എന്ന് കേൾക്കുമ്പോൾ EMകോഴ്സിൽ നിങ്ങൾ കേട്ട സ്കിൻ ഡെപ്ത്ആണ് ഓർമ വരിക എന്താണ് സ്കിൻ ഡെപ്ത് വേവ്സ് അകത്തേക്ക് പോയിട്ട് അബ്സോർബ് ചെയ്യപ്പെടുകയും സ്കിൻ ഡെപ്ത്ന്റെ പിന്നാലെ മറയുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ആ പ്രോപ്പർട്ടിക്ക്വിവിധ നിലകളിൽ സ്കിൻഡെപ്ത് ഉണ്ടാവുന്നത് മീഡിയത്തിൽ ലോസ് ഉണ്ടാകുന്നു മീഡിയത്തിൽ conductivity ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും സ്കിൻ ഡെപ്ത്അവിടെ ഉണ്ടാകുമോ വാക്വത്തിലെസ്കിൻ ഡെപ്ത്എന്തായിരിക്കും ഇത് നിരീക്ഷിക്കപ്പെട്ട ചോദ്യമാണ് വാക്വത്തിലെ സ്കിൻ ഡെപ്ത് ഇൻഫിനിറ്റി ആണ് വാക്വത്തിലെ വേവ്സ് ഒരിക്കലും നശിച്ചു പോകില്ല ഞാൻ ഇവിടെ എന്തെങ്കിലും ലോസ് കൊണ്ടുവരികയാണെങ്കിൽ വേവ്സ് നശിക്കാൻ തുടങ്ങും ഈ അബ്സോർബർ ഗണിതശാസ്ത്രപരമായി എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിന്റെ സൂചനയാണിത് ഇവിടെ കാണുന്ന ഗ്രീൻ ഷേഡ് റീജിയനിൽ ആ ത്രികൊണതിന്റെ എപ്സിലോൺ rmu r ൽ ലോസ് നെ കൊണ്ട് വരുന്നു ഇവിടെ എപ്സിലോൺ rഅതിനെ ലോസ്സി ആക്കുന്നു എപ്സിലോൺ rസങ്കീർണ്ണമാവും ഫ്രീ സ്പേസിൽ എപ്സിലോൺ r ഒന്ന് ആണ് ഞാൻ അതിനെ 1 j ആക്കും അതിനെ ഇമ്പ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു വഴി ആണിത് അസാധാരണമായ വഴിയിൽ കൂടി പോലും വേവ് വരികയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും വിദ്യാർത്ഥി ചില ഭാഗങ്ങൾ എന്നാലും റിഫ്ലക്റ്റ് ചെയ്യും ഫ്രസ്ണെൽ റീഫ്ലക്ഷൻ കോഎഫിഷിയന്റലേക്ക് നോക്കിയാൽ and എന്ന രണ്ട് മീഡിയമുകളിൽ വ്യത്യാസം ഉള്ളിടത്തോളം കാലംചില റീഫ്ലക്ഷൻസ് നടക്കും പക്ഷെ ആ റീഫ്ലക്ഷൻ ഈ ഗ്രീൻ റീജിയനിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്നിയന്ത്രിച്ചു കൊണ്ട് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും ഇത് ഒരുതരത്തിലുള്ള അവബോധമാണ് ബൌണ്ടറി കണ്ടീഷൻമെച്ചപ്പെടുത്താനുള്ള ഒരു മാർഗ്ഗമാണിത് ഈ കോഴ്സിൽ അബ്സോർബിങ് ലയേഴ്സ് ന്റെ ഉദാഹരണങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ പരിശോധിക്കാം ഏറ്റവും വിജയകരവും പോപ്പുലറുമായ വേവ് അബ്സോർബേർസ് ആണ് PML Perfectly Matched Layers അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും ഇത് ഫീൽഡ് അബ്സോർബ് ചെയ്ത് തിരികെ പ്രതിഫലിപ്പിക്കാത്ത അബ്സോർബർ നുള്ള നല്ല ഒരു ഉദാഹരണം ആണ് ടോട്ടൽ ഫീൽഡിലും സ്കാറ്റെർഡ് ഫീൽഡിലും ഈ അബ്സോർബർസ് എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നതായി നിങ്ങൾ കണ്ടോ ബൌണ്ടറി കണ്ടീഷൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടി ഞാൻ അബ്സോർബിങ് ലെയർ ഉപയോഗിക്കുന്നു ടോട്ടൽ ഫീൽഡ് ഫോർമുലേഷൻ ഉപയോഗിച്ച് ഞാനിത് നടപ്പിലാക്കിയാൽ എന്ത് സംഭവിക്കും ഞാൻ ഇൻസിഡന്റ് ഫീൽഡ് എവിടെ കൊണ്ട് വന്നോ ആ സ്ഥാനം മാറില്ല അത് ൽ ആണ് ഈ ലോസ്സി ലയർ ലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് ഈ വേവ്പ്രൊപോഗേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ തെറ്റുകൾ വരുത്തും വാക്വമിലൂടെ ഇത് പ്രൊപോഗേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇത് ഇപ്പോൾ ലോസ്സി ലയർ ലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥി അതെ പുറത്തുള്ള ഒരു സോഴ്സ് അതായത് ദൂരെയുള്ള ഒരു റഡാർ എന്ന് വിചാരിക്കുക അപ്പോൾ സോഴ്സ് എവിടെയാണ് എന്നതിൽ എനിക്ക് ഒരു നിയന്ത്രണവും ഇല്ല പക്ഷേ ഇപ്പോൾ ഒരു ലോസി ലയർ കൊണ്ട് വന്നാൽ ഇൻസിഡന്റ് ൽ തന്നെ തുടരും ഒരു മാറ്റവും ഉണ്ടാവില്ല ഇപ്പോൾ ടോട്ടൽ ഫീൽഡ് ഫോർമുലേഷൻ ലേക്ക് നോക്കാം വലതു വശത്തേക്ക് ടോട്ടൽ ഫീൽഡ് ആയാലും സ്കാറ്റെർഡ് ഫീൽഡ് ആയാലും ഇടത് വശത്തെ ടെർമ് ഒന്ന് തന്നെ ആണ് നിങ്ങളുടെ മെറ്റീരിയൽ പ്രോപ്പർട്ടിസ് ഇവിടെ ഒക്കെ വരും ഇപ്പോൾ ഞാൻ ചില ലോസി മെറ്റീരിയൽസ് ഇവിടെ കൊണ്ട് വരും ഇക്വേഷൻസിലെ ഇടത് വശത്തിന് ഒരു മാറ്റവും വരുത്താതെ അതുകൊണ്ട് അവിടെയെത്താൻ ഇൻസിഡൻസ് ഫീൽഡിന് ഈ ലോസി ലയർ ലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് അത്കൊണ്ട് അബ്സോർബെർസ് ന്റെ കാര്യത്തിൽ ടോട്ടൽ ഫീൽഡിൽ കൂടുതൽ തെറ്റുകൾ ഉണ്ടാവും അബ്സോർബർ ലൂടെ ഉള്ള പ്രൊപോഗേഷൻ കാരണം സ്കാറ്റെർഡ് ഫീൽഡ് ഫോർമുലേഷന് എന്ത് സംഭവിക്കും ടോട്ടൽ ഫീൽഡ് ഫോർമുലേഷൻകോഡ്ചെയ്യാൻ എളുപ്പമാണ് നിങ്ങൾ കോഡ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം അതാണ് ഒരു റഫറൻസ് സൊല്യൂഷൻ പോലെ അത് ഉപകാരപ്രദമാണ് നിങ്ങളുടെ കോഡ് ചില പ്രധാനപ്പെട്ട ജോലികളിൽ ഉപയോഗിക്കണമെങ്കിൽ സ്കാറ്റെർഡ് ഫീൽഡ് ഫോർമുലേഷനിലേക്ക് മാറുന്നതാണ് നല്ലത് കാരണം അപ്പോൾ നിങ്ങൾക്ക് ബൌണ്ടറി കണ്ടിഷൻ മെച്ചപ്പെടുത്താൻ പറ്റും അബ്സോബിങ് ലെയർ കൂട്ടുക എന്നത് നിസ്സാരമായ കാര്യമാണ് കോഡിൽ എന്താണ് ഉള്ളത് നിങ്ങൾ ചില ലോസ്സ് കൊണ്ട് വരേണ്ടിവരും ഈ അബ്സോർബേർസ് ന്റെ ഈ ഡിസൈൻ ഗവേഷണത്തിന്റെ ഒരു പ്രത്യേക മേഖലയിൽ വരുന്നതാണ് നിങ്ങൾ ഒരു ലോസ്സ് പെട്ടെന്ന് കൊണ്ട് വന്നാൽ എന്താണ് സംഭവിക്കുക നിങ്ങൾക്ക് ശക്തമായ ഒരു റീഫ്ലക്ഷൻകിട്ടും നിങ്ങൾ ക്രമേണ ലോസ്സ് കമ്പോണന്റ്നെ അബ്സോർബ് ചെയ്യുന്നു അത് പ്രതിഫലനം വളരെ കുറക്കുന്നു ഇതൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക്സിൽ ഉപയോഗിക്കുന്ന സൂത്രപണികൾ ആണ്ഉയർന്ന നിലവാരം ഉള്ള ഫാക്ടർ റിസോണെറ്റർസ്ഉണ്ടാക്കുന്നതിനു വേണ്ടി അത് ഒരു പ്രത്യേക വിഷയം ആണ് നമ്മൾ ചെയ്തത് എന്താണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഷേപ്പ് ഫങ്ക്ഷൻസ് നെ കുറിച്ച് പറഞാണ് നമ്മൾ തുടങ്ങിയത് സ്പേസ് ലെ വെക്ടർസ് വീക് ഫോമിൽ ഇക്വേഷൻസ് മാറ്റുന്നതിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു സ്കാറ്റെർഡ് ഫീൽഡിൽ മാത്രം പ്രയോഗിക്കാൻ പറ്റുന്ന റേഡിയേഷൻ ബൌണ്ടറി കണ്ടിഷൻ നെ കുറിച്ചും പറഞ്ഞു എന്നിട്ട് നമ്മൾ രണ്ടു വരിയബ്ൾസ് തിരഞ്ഞെടുത്തു ടോട്ടൽ ഫീൽഡ്അല്ലെങ്കിൽ സ്കാറ്റെർഡ് ഫീൽഡ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള രണ്ട് വ്യത്യസ്ത വഴികൾ ആണിത് കമ്പ്യൂറ്റേഷണൽ ഡോമെയിൻ ൽ അവസാനിക്കുന്നത് കൊണ്ട് അവിടെ എനിക്ക് ഒരു തരത്തിലും ഉള്ള വ്യാജ പ്രതിഫലനം ആവശ്യമില്ല അത് കൊണ്ട് അവിടെ ഞാൻ RBC പ്രയോഗിച്ചു വിദ്യാർത്ഥി ന് അടുത്തുള്ള ത്രികോണങ്ങൾ ആണോ ലോസി ഫാക്ടർ അതെ അതെ അടുത്തുള്ള ത്രികോണത്തിൽ ആണ് ഞാൻ ലോസ്സ് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയത് ഇൻസിഡന്റ് ഫീൽഡ് കൂടുതൽ വക്രീകരിക്കൽ ന് വിധേയമാകും അതെ ടോട്ടൽ ഫീൽഡ് ഫോർമുലേഷൻ ൽ വിദ്യാർത്ഥി Td H ഇൻസിഡന്റ് നെ ഒബ്ജെക്റ്റ്ന്റെ അഭാവത്തിൽ ഫീൽഡ് എന്ന് നിർവ്വചിച്ചിരിക്കുന്നു വിദ്യാർത്ഥി അതെ എല്ലാത്തിന്റെയും ആഭാവത്തിൽ അതെ വിദ്യാർത്ഥി അത്കൊണ്ട് അതിന് അബ്സോർബർ ലൂടെ സഞ്ചാരിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥി അതെ പക്ഷെ കാരണം അനലിറ്റിക്കൽ ഫോമിൽ ഏറ്റവും പുറത്തുള്ള അതിർത്തി യിൽ ആണ് ഞാൻ അതിനെ നിർവചിച്ചിരിക്കുന്നത് ഇക്വേഷൻസ് ചെയ്തു ഇൻസിഡന്റ് ഫീൽഡ് ന്റെ വിവരം സ്കാറ്റർ ആവാൻ ഒബ്ജെക്റ്റ് ൽ എത്തണംഅത് ഗണിതശാസ്ത്രപരമായി മെഷ് ലൂടെ ഓട്ടോമാറ്റിക് ആയി നടന്നതാണ് നമ്മൾ ഒന്നും ചെയ്തില്ല പക്ഷെ മാക്സ്വെൽസ് ഇക്വേഷൻ Maxwells equation ഇമ്പോസ് ചെയ്തപ്പോൾ അത് നടന്നു പക്ഷെ ആ ഇൻസിഡന്റ്ഫീൽഡ്സ് മെഷ് വഴി വികലമാക്കി അടിസ്ഥാന ഫങ്ക്ഷന്റെ അപ്പ്രോക്സിമേഷൻ കാരണം അവ കൂടുതൽ കുഴപ്പമായി ഈ അബ്സോർബിങ് ലയേഴ്സ് കാരണം H incident ന്റെ ഉള്ളിലുള്ള മൂല്യം എന്തായിരിക്കും വിദ്യാർത്ഥി ൽ ൽ ചില ഇന്റഗ്രൻഡ് യുടെ പുറത്ത് എന്തായിരിക്കും എന്ന് കാൽകുലേറ്റ് ചെയ്ത് നോക്കണം സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ ലെ H ഇൻസിഡന്റ് ന്റെ മൂല്യം ആണ് നിങ്ങൾ പറയുന്നത് എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് H H ഇൻസിഡന്റ് അഥവാ H സ്കാറ്റെർഡ് വിദ്യാർത്ഥി H ഇൻസിഡന്റ് H ഇൻസിഡന്റ് വിദ്യാർത്ഥി അത് നമുക്കറിയാം എന്ന് വിചാരിക്കുന്നു അത് അനലിറ്റിക്കലി നമുക്ക് അറിയാം വിദ്യാർത്ഥി മുഴുവൻ ഡൊമൈനിലും മുഴുവൻ ഡോമെയിനിലും നമുക്ക് അറിയാം പക്ഷേ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽഇത് വരില്ല ടോട്ടൽ ഫീൽഡ് ഫോർമുലേഷനിൽ ൽ മാത്രമേ system of ഇക്വേഷൻസ്ഇതിനെ സ്വീകരിക്കുള്ളൂ ഇത് എങ്ങനെ അകത്തു കയറും ൽ rന് നിങ്ങൾ എന്ത് value ആണ് കൊടുക്കുക ബൌണ്ടറി എഡ്ജസ് ൽ മാത്രം ഇതുവരെ നമ്മൾ പറഞ്ഞത് RHS നെ പറ്റിയാണ് ഇനി എല്ലാം ഒരുമിച്ചു ചേർക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇടത് വശത്തേക്ക് എല്ലാം ഇടും RHS ഉം LHS ഉം നോക്കിയിട്ട് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൂട്ടിയോജിപ്പിക്കുക ഇത്രയും സമയം നമ്മൾ ശ്രദ്ധ കൊടുത്തത് ബൌണ്ടറിബൌണ്ടറിയിലേക്കായിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇനി നമുക്ക് LHS നോക്കാം